നമ്മുടെ മുൻ സെഷനുകളിൽ CVP BEP വിശകലനം വ്യത്യസ്ത തരത്തിലുള്ള തീരുമാനമെടുക്കൽ സാഹചര്യങ്ങൾ എന്നിവയും ലാഭ ആസൂത്രണത്തിനായി ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നും നമ്മൾ കണ്ടു ഉൽപ്പന്ന മിശ്രിതം പ്രധാന ഘടകം അധിഷ്ഠിത തീരുമാനമെടുക്കൽ എന്നിവയും മറ്റും നമ്മൾ കണ്ടു ഇപ്പോൾ നമുക്ക് കുറച്ച് ആശയങ്ങൾ കൂടി പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യാം തുടർന്ന് വീണ്ടും കൂടുതൽ കേസുകളിലേക്ക് മടങ്ങാം അതിനാൽ ഇപ്പോൾ തീരുമാനമെടുക്കുന്നതിനുള്ള പ്രസക്തമായ ചിലവിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നു പ്രസക്തമായതും മുങ്ങിയ ചെലവുകളും തമ്മിലുള്ള വ്യത്യാസം തീരുമാനം എടുക്കുക അല്ലെങ്കിൽ വാങ്ങുക ഷട്ട്ഡൌൺ തീരുമാനം സംയുക്ത ഉൽപ്പന്നം സംയുക്ത ഉൽപ്പന്ന വിലയുടെ വിഹിതം തുടങ്ങിയവ നമ്മൾ കാണും ഇപ്പോൾ പ്രസക്തമായ ചെലവ് എന്താണ് തീരുമാനമെടുക്കുമ്പോൾ ഒരു മാനേജർക്ക് പ്രസക്തമായ ചെലവ് തിരിച്ചറിയാൻ കഴിയുന്നത് വളരെ പ്രധാനമാണ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗിൽ നമ്മൾ ചരിത്രപരമായ ചിലവ് നോക്കുന്നു എന്നാൽ ഇവിടെ പ്രസക്തമായ ചിലവ് ചരിത്രപരമായ ചിലവല്ല എന്നാൽ ഇത് ഒരു പ്രത്യേക തീരുമാനത്തിനായുള്ള വിവിധ ഇൻപുട്ടുകളുമായും പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന ഭാവി ചെലവാണ് അതിനാൽ പ്രസക്തമായ ചെലവ് നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു കാരണം തീരുമാനമനുസരിച്ച് എന്ത് വിലയാണ് പ്രസക്തമെന്ന് പരിഗണിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇത് ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന ചിലവാണ് ഇതിനു മറ്റു കോഴ്സുമായി ബന്ധമില്ല സാധാരണയായി വേരിയബിൾ ചെലവുകൾ പ്രസക്തമാണ് സ്ഥിരമായ ചിലവുകൾ പ്രസക്തമല്ല തീർച്ചയായും ഞാൻ പറഞ്ഞിട്ടുണ്ട് സാധാരണയായി അത് എല്ലാ സമയത്തും ഉണ്ടാകണമെന്നില്ല ഇപ്പോൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ വാങ്ങുക അല്ലെങ്കിൽ പ്രത്യേക വിലനിർണ്ണയ തീരുമാനത്തിന്റെ ഒരു ഉദാഹരണം എടുക്കാം ഉണ്ടാക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ വില പ്രസക്തമായിരിക്കും ഞങ്ങൾ ഇത് സ്വയം നിർമ്മിക്കുന്നുവെന്ന് കരുതുക നിശ്ചിത ചെലവുകൾ എന്തായാലും മാറാൻ പോകുന്നില്ല അതിനാൽ ഗതാഗതച്ചെലവിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ വാങ്ങുന്ന വിലയ്ക്കെതിരായ നിർമ്മാണച്ചെലവിന്റെ വേരിയബിൾ ചെലവാണ് പ്രധാനം ഞങ്ങൾ ഗതാഗതച്ചെലവും വാങ്ങുന്നതിനുള്ള ചെലവും ചേർക്കും അതിനാൽ ഞങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള വേരിയബിൾ ചെലവും വാങ്ങുന്നതിനുള്ള വേരിയബിൾ ചെലവും താരതമ്യം ചെയ്യുന്നു അതിൽ സ്ഥിരമായ ചിലവ് ഉൾപ്പെടുത്തരുത് കാരണം ഇത് ഒരു ഹ്രസ്വകാല തീരുമാനമാണ് അത് ഉണ്ടാക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതിലൂടെ മാറാൻ പോകുന്നില്ല അതുകൊണ്ടാണ് സാഹചര്യ വേരിയബിൾ ഉണ്ടാകുകയോ വാങ്ങുകയോ ചെയ്യുന്നത് നിർമ്മാണച്ചെലവ് ഒരു പ്രസക്തമായ ചെലവാണ് അതുപോലെ പ്രത്യേക വിലനിർണ്ണയത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ അർത്ഥമാക്കുന്നത് ഈ വിലനിർണ്ണയം നമ്മുടെ സാധാരണ മാർക്കറ്റ് വിലകളെ തടസ്സപ്പെടുത്താൻ പോകുന്നില്ലെങ്കിലോ സാധാരണ ഉപഭോക്താക്കളെ ബാധിക്കാൻ പോകുന്നില്ലെങ്കിലോ നമ്മൾക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ കഴിയും നമ്മളുടെ വേരിയബിൾ ചെലവ് നികത്താൻ മതിയായ വിലയ്ക്ക് വിൽക്കുക സാധാരണ വിപണിയെ ബാധിക്കാത്ത സർക്കാർ കരാറിന്റെ വിലനിർണ്ണയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത കേസുകളിലൊന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അതിനാൽ വേരിയബിൾ വില 72 ആയിരുന്നു സാധാരണ വിൽപ്പന വില ഏകദേശം 152 ആയിരുന്നു നമ്മൾ അത് 92 ന് വിൽക്കാൻ തീരുമാനിച്ചു അതിനാൽ നമുക്ക് വേരിയബിൾ കോസ്റ്റ് കവർ ചെയ്യാൻ കഴിയും ഇൻക്രിമെന്റൽ ഫിക്സഡ് കോസ്റ്റ് അല്ലാതെ മൊത്തം ഫിക്സഡ് ചിലവ് മാത്രമല്ല ഇൻക്രിമെന്റൽ ഫിക്സഡ് കോസ്റ്റും ചെറിയ ലാഭവും ഇങ്ങനെയാണ് വിലനിർണ്ണയം നടത്തുന്നത് പ്രസക്തമായ ചിലവ് തിരിച്ചറിയുന്നത് വളരെ പ്രധാനമാണ് പ്രസക്തമായ ചിലവ് ഈടാക്കുക ഒരു പൊതു നിയമമെന്ന നിലയിൽ വേരിയബിൾ ചെലവുകൾ കൂടുതലും പ്രസക്തമാണെന്നും സ്ഥിരമായ ചിലവുകൾ അതല്ലെന്നും നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല ഓരോ വേരിയബിൾ ചെലവും പ്രസക്തമാകണമെന്നില്ല അതുപോലെ എല്ലാ നിശ്ചിത ചെലവുകളും അപ്രസക്തമാകണമെന്നില്ല ഗവൺമെന്റ് കരാറിന്റെ മുമ്പത്തെ കാര്യം നിങ്ങൾ വീണ്ടും ഓർക്കുന്നുവെങ്കിൽ ഉൽപ്പാദന സ്ഥിരമായ ചിലവിൽ കുറച്ച് വർദ്ധനവ് ഉണ്ടാകാൻ പോകുന്നു അപ്പോൾ നിശ്ചിത ചെലവിന്റെ വർദ്ധനവ് പ്രസക്തമായി കണക്കാക്കാം വേരിയബിൾ നിർമ്മാണച്ചെലവ് പ്രസക്തമാണെന്നും വാങ്ങുന്നതിനുള്ള വേരിയബിൾ വില പ്രസക്തമാണെന്നും നമ്മൾ ചർച്ച ചെയ്തതുപോലെ നിങ്ങൾ സാധാരണയായി ഒരു തീരുമാനം എടുക്കുകയോ വാങ്ങുകയോ ചെയ്യുകയാണെന്ന് കരുതുക എന്നാൽ ചില അസംസ്കൃത വസ്തുക്കൾ നമ്മുടെ പക്കൽ ഉപയോഗശൂന്യമായി കിടക്കുകയാണെന്നും അവ കാലഹരണപ്പെടുന്ന ദിവസത്തോട് അടുക്കുന്നുവെന്നും കരുതുക നമ്മൾ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവ വലിച്ചെറിയേണ്ടിവരും അത്തരം സാഹചര്യത്തിൽ ഈ അസംസ്കൃത വസ്തു വെറുതെ കിടക്കുകയാണ് ഈ അസംസ്കൃത വസ്തുക്കളുടെ വില പ്രസക്തമാണെന്ന് കണക്കാക്കിയേക്കില്ല കാരണം അത് ഏത് വഴിയും പാഴായിപ്പോകുന്നു അതിനാൽ നിർമ്മാണത്തിന്റെ വേരിയബിൾ ചെലവിൽ ഇത് ഉൾപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല നിങ്ങൾക്ക് മനസിലാകുന്നുണ്ടോ ഒരു ദൈനംദിന ഉദാഹരണം ഒരു ബിസിനസ്സ് തരത്തിലുള്ള ഉദാഹരണമല്ല വേനൽക്കാലത്ത് വെള്ളം കുത്തനെ ലഭ്യമാണെന്ന് പറയട്ടെ ആളുകൾ വെള്ളം വാങ്ങുന്നതിന് പണം നൽകുന്നു വെള്ളത്തിന്റെ വില ഗണ്യമായി വർദ്ധിക്കുന്നു സീസൺ മാറുകയും മഴക്കാലം ആരംഭിക്കുകയും മഴയിലൂടെ ധാരാളം വെള്ളം ഒഴുകുകയും ചെയ്താൽ ഒരുപക്ഷേ വെള്ളത്തിന്റെ വില 0 ആയി മാറും ഇത് ഒരു വേരിയബിൾ ചിലവാണെങ്കിലും ഇപ്പോൾ അത് അപ്രസക്തമാണ് കാരണം ഇപ്പോൾ നമ്മൾ തീർച്ചയായും അതിന് പണം നൽകേണ്ടതില്ല പാരിസ്ഥിതിക കോണിൽ വെള്ളം വളരെ പ്രധാനമാണ് എന്നാൽ ചെലവ് വീക്ഷണകോണിൽ ലഭ്യതയെ ആശ്രയിച്ച് തീരുമാനമനുസരിച്ച് കോഴ്സിലെ മാറ്റത്തെ ആശ്രയിച്ച് പ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണ് അപ്രസക്തമായ ചിലവ് ഇപ്പോൾ പ്രസക്തമായ ചിലവുകൾ തീരുമാനത്തിന് പ്രാധാന്യമുള്ള ചിലവുകളുടെ ഘടകങ്ങളിലേക്ക് നമ്മുടെ ബദൽ വരയ്ക്കുന്നു ഉദാഹരണത്തിന് പ്രോജക്റ്റ് X ന്റെ നിശ്ചിത ചെലവ് 500000 ആണ് ഇതര പ്രോജക്റ്റിന് ഇത് 700000 ആണ് ഇപ്പോൾ 2 പ്രോജക്റ്റുകൾ സ്ഥിരമായ ചിലവുകളിൽ മാറ്റം ഉൾക്കൊള്ളുന്നതിനാൽ ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് നിശ്ചിത ചെലവുകൾ അപ്രസക്തമാണെന്ന് പറയാൻ കഴിയില്ല കുറഞ്ഞത് മാറ്റത്തിന്റെ പരിധിവരെ നിശ്ചിത ചെലവ് പ്രസക്തമായ ചിലവായി കണക്കാക്കും ഇപ്പോൾ മറ്റ് തരത്തിലുള്ള ചിലവുകൾ മുങ്ങിയ ചിലവ് എന്ന് വിളിക്കുന്നു പ്രസക്തമല്ലാത്ത എല്ലാ ചിലവുകളും മുങ്ങിയ ചിലവ് എന്ന് വിളിക്കപ്പെടുന്നു അവ ഇതിനകം ഉണ്ടായതാണ് അല്ലെങ്കിൽ അവ മുമ്പ് ചെയ്തതാണ് തീരുമാനത്തിലൂടെ അവ മാറ്റാൻ കഴിയില്ല തുടർന്ന് അവിടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ ചെലവുകൾ പരിഗണിക്കുന്നതിൽ അർത്ഥമില്ല ആ ചെലവുകളെ സങ്ക് കോസ്റ്റ് എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് ഉൽപന്നത്തിനായുള്ള ഗവേഷണ ചെലവ് ആ ഉൽപ്പന്നം ലോഞ്ച് ചെയ്യണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ഗവേഷണ കാരണം അപ്രസക്തമാകും അതിനർത്ഥം ഗവേഷണം പ്രധാനമല്ല എന്നല്ല പക്ഷേ ഞങ്ങൾ ഇതിനകം ഗവേഷണത്തിൽ 1 കോടി രൂപ ചെലവഴിച്ചുവെന്ന് പറയാം ഉൽപ്പന്നം ഇപ്പോൾ സാങ്കേതികമായി മികച്ചതാണ് എന്നാൽ ഞങ്ങൾ ഉൽപ്പന്നം ഫ്ലോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് സാമ്പത്തികവും മാനേജുമെന്റും ആയ കോണിൽ നിന്ന് ഒരു തീരുമാനം എടുക്കണം ഇപ്പോൾ ഉൽപ്പന്നത്തിന്റെ വിൽപ്പന 2 കോടിയും നിർമ്മാണച്ചെലവ് 1 5 കോടിയുമാണെങ്കിൽ ഉൽപ്പന്നം പുറത്തിറക്കണോ ഇപ്പോൾ നിങ്ങൾ മൊത്തം ചെലവ് കണക്കാക്കിയാൽ വിൽപ്പന 2 ലക്ഷം 2 കോടിയാണെന്നും നിർമ്മാണച്ചെലവ് 1 5 പ്ലസ് ഗവേഷണ ചെലവ് 1 ആണെന്നും നിങ്ങൾക്ക് തോന്നും അതായത് വില 2 5 ആണ് വിൽപ്പന 2 അതിനാൽ ഉൽപ്പന്നം ലോഞ്ച് ചെയ്യുന്നതിനുള്ള ഉത്തരം ഇല്ലായിരിക്കാം എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ശരിയായ തീരുമാനമല്ല കാരണം ഗവേഷണത്തിന്റെ ചിലവ് ഇതിനകം തന്നെ എടുത്തിട്ടുണ്ട് അത് ഇപ്പോൾ ചെലവ് കുറയ്ക്കാൻ ഒരു മാർഗവുമില്ല ഇപ്പോൾ ആ ചെലവ് അവഗണിച്ച് പ്രവർത്തനങ്ങളുടെ വിലയോ ചെലവോ നോക്കുന്നത് അർത്ഥമാക്കുന്നു നിർമ്മാണം 1 5 ഉം വരുമാനം 2 ഉം ആണ് അതിനാൽ ഉൽപ്പന്നം സമാരംഭിക്കുന്നതിലൂടെ ഞങ്ങൾക്ക് 0 5 കോടിയുടെ പോസിറ്റീവ് സംഭാവന നൽകാൻ കഴിയും എന്നിരുന്നാലും മൊത്തം ഗവേഷണച്ചെലവ് 1 കോടി കണക്കിലെടുക്കുമ്പോൾ ഇപ്പോഴും നഷ്ടത്തിലായിരിക്കും എന്നാൽ ഒരു ഉൽപ്പന്നം പുറത്തിറക്കാത്തത് ഒരു കോടിയുടെ നഷ്ടം ഉണ്ടാക്കും നമ്മളുടെ ഗവേഷണച്ചെലവ് ഉൽപ്പന്നം സമാരംഭിക്കുന്നതിനും കുറഞ്ഞത് 50 ലക്ഷം വീണ്ടെടുക്കുന്നതിനും ഇത് മികച്ച അർത്ഥമുണ്ടാക്കും നിങ്ങൾക്ക് മനസിലാകുന്നുണ്ടോ അതിനാൽ മുങ്ങിപ്പോയ ചെലവുകൾ നമ്മൾ തിരിച്ചറിയുകയും തീരുമാനമെടുക്കുന്നതിന് അവ അവഗണിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ മുങ്ങിപ്പോയ ചിലവുകൾ ഇതിനകം ഉണ്ടായിട്ടുണ്ട് അവ തിരിച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് തീരുമാനമെടുക്കുന്നതിൽ അവർ ഒരു പങ്കും വഹിക്കാത്തത് അവ ഭാവിയിലെ ചിലവുകളെ ബാധിക്കില്ല ഒരു ഉദാഹരണം കൂടി ഉൽപ്പന്നം ലോഞ്ച് ചെയ്യുമ്പോൾ പണം വീണ്ടെടുക്കാൻ കഴിയില്ലെങ്കിലും പരസ്യത്തിനായി ധാരാളം പണം ചിലവഴിക്കുമ്പോൾ ഉൽപ്പന്നത്തിന്റെ ആവശ്യം മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ അത് ചെലവഴിച്ചു ഭാവിയിൽ ഉൽപ്പന്ന ഡിമാൻഡ് വർധിച്ചില്ലെങ്കിലും വർധിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ ഉണ്ടാക്കിയ പരസ്യച്ചെലവ് ശരിയാകും ഞങ്ങൾ പരസ്യത്തിന് പോകണോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കുമ്പോൾ അത് പ്രസക്തമാണ് എന്നാൽ ഒരിക്കൽ നമ്മൾ തീരുമാനമെടുത്ത് ചിലവ് വരുത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഉൽപ്പന്നത്തിന്റെ ലാഭക്ഷമത കണക്കാക്കുമ്പോൾ പരസ്യച്ചെലവ് മുങ്ങിപ്പോകുന്നു നിങ്ങൾക്ക് മനസിലാകുന്നുണ്ടോ അതിനാൽ സാഹചര്യമനുസരിച്ച് പ്രസക്തമായ ചെലവുകളും മുങ്ങിപ്പോയ ചെലവുകളും തിരിച്ചറിയുന്നത് വളരെ പ്രധാനമാണ് ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ നിങ്ങൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് നടത്തുകയാണെങ്കിലോ നിങ്ങൾ ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുവെന്നും ഒരു പ്രത്യേക ഓഹരി 1000 ന് വാങ്ങിയെന്നും കരുതുക പിന്നീട് ഓഹരിയുടെ വില 800 ആയി കുറയും നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങണം അല്ലെങ്കിൽ ആ ഓഹരി വിൽക്കാതിരിക്കുക വാങ്ങൽ ചെലവ് 1000 ആയതിനാൽ നിലവിലെ വില 800 ആയതിനാൽ നിങ്ങൾക്ക് 200 നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അതിനാൽ വിൽക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാൽ ഭാവിയിലെ വില 700 ആകാൻ സാധ്യതയുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് വിൽക്കുന്നതിൽ അർത്ഥമുണ്ട് കാരണം നിലവിലെ നഷ്ടം 200 ആയതിനാൽ അവ 300 ആയി വർദ്ധിപ്പിക്കാൻ പോകുന്നു അതിനാൽ 800 ൽ വരുന്നതാണ് നല്ലത് വില 700 ലേക്ക് താഴുന്നത് വരെ കാത്തിരിക്കരുത് യഥാർത്ഥത്തിൽ 1000 ന്റെ വാങ്ങൽ ചെലവ് ഇപ്പോൾ അപ്രസക്തമാണ് പ്രസക്തമായത് നിലവിലെ വില 800 ആണ് ഭാവിയിലെ വില എന്തായിരിക്കും വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യരുത് എന്ന നിങ്ങളുടെ തീരുമാനം മുൻകാല ചെലവുകളെ ആശ്രയിക്കാതെ ഭാവിയിലെ വിലയെ ആശ്രയിച്ചിരിക്കുന്നു മനസ്സിലായോ ഇനി ഉണ്ടാക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന ഒന്നോ രണ്ടോ സാഹചര്യങ്ങൾ കൂടി നോക്കാം ഇപ്പോൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ വാങ്ങുക എന്നത് പലപ്പോഴും ഒരു തന്ത്രപരമായ തിരഞ്ഞെടുപ്പാണ് ഒരു പ്രത്യേക ഉൽപ്പന്നം ആന്തരികമായി നിർമ്മിക്കാം അല്ലെങ്കിൽ നമുക്ക് അത് പുറത്തുനിന്നുള്ള വിതരണക്കാരനിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യാം മിച്ച ശേഷി ലഭ്യമാണോ എന്നതിൽ ഇപ്പോൾ രണ്ട് ഘടകങ്ങൾ വളരെ പ്രധാനമാണ് മൊത്തം ചെലവ് പരിഗണിക്കുന്നതിനുപകരം നമ്മൾക്ക് ഇതിനകം തന്നെ അത് നിർമ്മിക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ വിതരണക്കാരന്റെ വിലയും നിർമ്മാതാവിന്റെ വിലയും നമ്മൾ പരിഗണിക്കും ഇപ്പോൾ വിശകലനത്തിന്റെ ഘടകങ്ങളിൽ നിങ്ങൾ പരിഗണിക്കേണ്ട മറ്റ് ചില ഘടകങ്ങളും ഉൾപ്പെടുന്നു ഇൻക്രിമെന്റൽ ഇൻവെന്ററി ചുമക്കുന്ന ചെലവുകൾ പുറത്തുനിന്ന് ലഭിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ സാധനസാമഗ്രിയോ കാലാവസ്ഥയോ സൂക്ഷിക്കേണ്ടതുണ്ട് പുറത്തുനിന്നുള്ള സപ്ലൈകൾ ക്രമമായില്ലെങ്കിൽ നിങ്ങൾ അത് മൊത്തത്തിൽ വാങ്ങേണ്ടി വന്നേക്കാം എന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ നേരിട്ടുള്ള തൊഴിൽ ചെലവ് പ്രാധാന്യമർഹിക്കുന്നു കാരണം അത് നേരിട്ടുള്ള ചെലവായതിനാൽ ഇത് സ്വഭാവത്തിൽ വേരിയബിൾ ആണ് പിന്നെ എന്തെങ്കിലും വർദ്ധന ഫാക്ടറി ഓവർഹെഡുകൾ ഉണ്ടോ പിന്നെ ഡെലിവറി വാങ്ങുന്ന മെറ്റീരിയലിന്റെ വിലയെന്താണ് ഇതിന് എന്തെങ്കിലും ഗതാഗത ചെലവ് ആവശ്യമുണ്ടോ ഈ ഘടകങ്ങൾ ആണ് ഉണ്ടാക്കണമോ വിൽക്കണമോ എന്ന് തീരുമാനിക്കുന്നത് ഇൻക്രിമെന്റൽ മാനേജീരിയൽ കോസ്റ്റ് പ്രത്യേകിച്ച് ഗുണമേന്മയുള്ള പരിഗണനകൾ വർദ്ധിച്ചുവരുന്ന വാങ്ങൽ ചെലവുകൾ ചില പുതിയ ഉപകരണങ്ങളുടെ വർദ്ധന മൂലധനച്ചെലവ് എന്നിവ മറ്റ് ചില ഘടകങ്ങളാണ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഈ ഘടകങ്ങളെല്ലാം പ്രധാനമാണ് ഇപ്പോൾ വാങ്ങൽ തീരുമാനത്തിന്റെ കാര്യം വരുമ്പോൾ ചില വിതരണക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഓഫർ ലഭിച്ചു നിങ്ങൾക്ക് അത് പുറത്ത് നിന്ന് വാങ്ങാം ദയവായി ചെലവ് വശങ്ങൾ പരിശോധിക്കുക ഒന്നാമതായി പരിശോധിക്കേണ്ടത് തീർച്ചയായും വാങ്ങൽ വിലയാണ് എന്നാൽ വാങ്ങൽ വില കൂടാതെ ഗതാഗതം പരിശോധന ചെലവുകൾ വർദ്ധിച്ചുവരുന്ന വാങ്ങൽ ചെലവുകൾ ഗുണനിലവാരം അല്ലെങ്കിൽ സേവന പ്രശ്നങ്ങൾ കാരണം ഏതെങ്കിലും തുടർ ചെലവ് ഘടകങ്ങളും പരിഗണിക്കണം അതിനാൽ നിങ്ങൾ വാങ്ങലുമായി ബന്ധപ്പെട്ട മൊത്തം ചെലവുകൾ എടുക്കും കൂടാതെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചെലവുകളും എടുക്കും തുടർന്ന് ഇവ രണ്ടും താരതമ്യം ചെയ്താൽ വാങ്ങൽ അല്ലെങ്കിൽ വിൽക്കൽ തീരുമാനം എടുക്കുമോ ഇനി നമുക്ക് അടച്ചുപൂട്ടുന്നത് നോക്കാം ചില സമയങ്ങളിൽ ഒരു താൽക്കാലിക ഷട്ട്ഡൌൺ ചെയ്യേണ്ടി വരും കാരണം ഉൽപ്പന്നത്തിന്റെ ആവശ്യം കുറയുകയോ അസംസ്കൃത വസ്തുക്കളുടെയോ തൊഴിലാളികളുടെയോ ചില ഇൻപുട്ടുകളുടെയോ ലഭ്യത കുറവായാലോ FT വേരിയബിൾ ചെലവ് നൽകുന്നതിനുപകരം അല്ലെങ്കിൽ അതിന് കഴിയാതിരിക്കുന്നതിന് പകരം നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുക ഉൽപ്പന്നം താൽക്കാലികമായി അടച്ചുപൂട്ടുന്നത് ഉചിതമായിരിക്കും പ്രത്യേകിച്ചും വിൽപ്പന വില വേരിയബിൾ ചെലവുകൾക്ക് താഴെയാണെങ്കിൽ അത് അടയ്ക്കുന്നതാണ് നല്ലത് എന്നാൽ വിൽപ്പന വിലയ്ക്ക് കുറഞ്ഞത് വേരിയബിൾ ചിലവെങ്കിലും വീണ്ടെടുക്കാൻ കഴിയുമെങ്കിൽ ഉൽപ്പാദനം തുടരുന്നത് അർത്ഥമാക്കുന്നു നിങ്ങൾ ഒരു നിർമ്മാണ സൌകര്യം അടയ്ക്കുമ്പോൾ സുരക്ഷ പോലുള്ള ചില അധിക നിശ്ചിത ചിലവുകൾ ഉണ്ടായേക്കാം അതുപോലെ ചില നിശ്ചിത ചെലവുകൾ അറ്റകുറ്റപ്പണികൾ പോലെ കുറച്ചേക്കാം അതിനാൽ പ്രസക്തമായ ചിലവ് അവ മാറാൻ പോകുന്ന പരിധി വരെ മാത്രമേ ഞങ്ങൾ പരിഗണിക്കൂ അതിനാൽ സാധാരണ കോഴ്സിലെ നിശ്ചിത ഓവർഹെഡ് ചെലവുകളും വ്യവസായശാല അടച്ചുപൂട്ടുമ്പോൾ നിശ്ചിത ഓവർഹെഡുകളും തമ്മിലുള്ള വ്യത്യാസത്തേക്കാൾ കൂടുതലാണോ സംഭാവന എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കണം തീരുമാനം സാധാരണയായി വ്യവസായശാല അടച്ചുപൂട്ടുമ്പോൾ നിശ്ചിത ചെലവ് കുറയും അതിനാൽ നിശ്ചിത ചെലവിൽ കുറച്ച് ലാഭമുണ്ടാകും അത് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതിലൂടെ ഉണ്ടാകുന്ന സംഭാവനയുമായി താരതമ്യപ്പെടുത്തും രണ്ട് ഷട്ട്ഡൌൺ തീരുമാനങ്ങളും താരതമ്യപെടുത്താം അടുത്തത് പുതിയ ഉൽപ്പന്നം അവതരിപ്പിക്കുന്നു വാണിജ്യപരമായ ഒരു പുതിയ സംരംഭം ആരംഭിക്കുമ്പോൾ പരിഗണിക്കേണ്ട പ്രധാന വശങ്ങൾ എന്തൊക്കെയാണ് എന്നതിന് ചില കാരണങ്ങളുണ്ട് ഒന്ന് ഉപഭോക്താക്കളിൽ നിന്നുള്ള ആവശ്യമോ താൽപ്പര്യമോ ആണ് ഒരു പുതിയ ഉൽപ്പന്നം നിർമ്മിക്കാൻ തുടങ്ങുന്നതിനോ പുതിയ ഉൽപ്പന്നം സമാരംഭിക്കുന്നതിനോ വേണ്ടത്ര സുസ്ഥിരമായ ഡിമാൻഡ് ഉണ്ടോ എന്നും ഞങ്ങൾ പരിശോധിക്കും അതിനാൽ ഏതൊരു വിജയകരമായ എന്റർപ്രൈസും നമ്മൾ ഉപഭോക്താവിന്റെ ആവശ്യം നോക്കി ആ കോൾ സ്വീകരിക്കും എന്നാൽ അതേ സമയം ഉൽപ്പന്ന ജീവിത കാലയളവിൽ എല്ലാ പ്രസക്തമായ ചിലവുകളും വീണ്ടെടുക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് ചിലപ്പോൾ ആദ്യ വർഷത്തിലോ ആദ്യ മാസത്തിലോ ഒന്നര വർഷത്തിലോ 2 വർഷത്തിലോ ചെലവ് വീണ്ടെടുക്കാൻ കഴിഞ്ഞെന്നുവരില്ല എന്നാൽ ഉൽപ്പന്നത്തിന്റെ മുഴുവൻ ജീവിതത്തിലും ചെലവ് വീണ്ടെടുക്കാനും ആവശ്യത്തിന് മിച്ചം നേടാനും അതിന് കഴിയുമോ എന്ന് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു പുതിയ ഉൽപ്പന്നം സമാരംഭിക്കുന്നതിൽ ഒരു പോയിന്റ് ഉണ്ടാകും അടുത്തതായി സംയുക്ത ഉൽപ്പന്നങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു വശം കൂടി നോക്കാം രണ്ടോ അതിലധികമോ ഉൽപ്പന്നങ്ങൾ ഒരുമിച്ച് ഉത്പാദിപ്പിക്കുമ്പോൾ അവയെ സംയുക്ത ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ രണ്ട് ഉൽപ്പന്നങ്ങളും ഒരു നിശ്ചിത സമയം വരെ ഒരേ പ്രക്രിയയിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് തുടർന്ന് അവ വേർതിരിക്കപ്പെടുന്നു നിങ്ങൾക്ക് രണ്ട് വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുണ്ട് അത് കൂടുതൽ പ്രോസസ്സിംഗ് ആവശ്യമില്ലായിരിക്കാം ഉദാഹരണത്തിന് കോക്ക് ഉൽപ്പാദനത്തിൽ കൽക്കരി ഒരു അസംസ്കൃത വസ്തുവായി മാറുന്നു നിങ്ങൾക്ക് കോക്ക് ലഭിക്കുന്നില്ല ഉദാഹരണത്തിന് അമോണിയ സൾഫേറ്റ് ലൈറ്റ് ഓയിൽ ഇവ മൂന്നും ഇതിൽ ചേരുന്ന ഉൽപ്പന്നങ്ങളായി കണക്കാക്കപ്പെടുന്നു അതുപോലെ ഒരു റിഫൈനറിയിൽ ക്രൂഡ് ഓയിൽ ഒരു അസംസ്കൃത വസ്തുവാണ് സാധാരണയായി നമുക്ക് പെട്രോളും ഡീസലും ഗ്യാസും സംയുക്ത ഉൽപ്പന്നങ്ങളായി ലഭിക്കും ഗ്രാഫ് ഇങ്ങനെയാണ് കാണപ്പെടുന്നത് അതിനാൽ ക്രൂഡ് ഓയിൽ ഒരു ഇൻപുട്ടാണ് സംയുക്ത ഉൽപ്പാദന പ്രക്രിയയായ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ നാം അത് കടത്തിവിടേണ്ടതുണ്ട് അതിനാൽ ഈ പ്രക്രിയയിൽ ഉണ്ടാകുന്ന ചെലവുകൾ ഇവയെല്ലാം കൂടെ ചേർന്ന ചെലവുകളാണ് രണ്ട് ഉൽപന്നങ്ങളുടെ ഒരു വിഭജനത്തിൽ ഉദാഹരണത്തിന് ഇവിടെ പെട്രോളും ഡീസലും വേർതിരിക്കപ്പെടുന്നു നിങ്ങൾക്ക് കുറച്ച് അധിക ചിലവ് നൽകേണ്ടി വന്നേക്കാം വേർപെടുത്തിയതിനുശേഷം ഉള്ള പ്രത്യേക ചിലവുകളെ പ്രോസസ്സിംഗ് ചെലവുകൾ എന്ന് വിളിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് ഉൽപ്പന്നം വിൽക്കാൻ കഴിയും ഉൽപ്പന്നത്തിന് അനുസരിച്ച് സാഹചര്യങ്ങളും മാറുന്നുണ്ട് ഉപോൽപ്പന്നം എന്നത് താരതമ്യേന അപ്രധാനമായ അല്ലെങ്കിൽ വളരെ ചെറിയ മൂല്യമുള്ള ഒരു ഉൽപ്പന്നമാണ് അതിനാൽ സംയുക്ത ഉൽപന്നങ്ങളായി പുറത്തുവരുന്ന ജലമാണ് പ്രധാന ഉൽപന്നങ്ങൾ അതോടൊപ്പം നമുക്ക് താരതമ്യേന ചെറിയ സാമ്പത്തിക മൂല്യമുള്ളതുമായ ചില ഉൽപ്പന്നങ്ങൾ ലഭിച്ചേക്കാം അത് ഉപോൽപ്പന്നമായി കണക്കാക്കും ഇപ്പോൾ ഉൽപന്നത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന മൂല്യം സാധാരണയായി പ്രധാന ഉൽപ്പന്നത്തിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും ഉൽപന്നത്തിന്റെ ഉദാഹരണം കോക്ക് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ച് ഗ്യാസും ടാറും കിട്ടും അല്ലെങ്കിൽ തടി മില്ലുകളിൽ നിങ്ങൾക്ക് കുറച്ച് തടി പൊടി അല്ലെങ്കിൽ പരുത്തി വൃത്തിയാക്കൽ പ്രക്രിയകളിൽ കുറച്ച് പരുത്തി വിത്തുകൾ ലഭിക്കും അല്ലെങ്കിൽ വെളിച്ചെണ്ണ വ്യവസായത്തിൽ നിങ്ങൾക്ക് കൊക്ക ഷെല്ലുകൾ ലഭിക്കും ഇവയെല്ലാം ഉദാഹരണങ്ങളാണ് ഉൽപ്പന്നങ്ങളാൽ അവയ്ക്ക് വളരെ ചെറിയ മൂല്യമുണ്ട് അതിനാൽ അവരിൽ നിന്ന് യാതൊരു വിലയും ഈടാക്കില്ല പകരം അവരുടെ വിൽപ്പന മൂല്യം അല്ലെങ്കിൽ അവയുടെ യഥാർത്ഥ മൂല്യം പ്രധാന ഉൽപ്പന്നത്തിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും ചില ചെറിയ പദങ്ങൾ ഇപ്പോൾ ഒരു സംയുക്ത ഉൽപ്പന്ന പ്രക്രിയയാണ് അത് രണ്ടോ അതിലധികമോ ഉൽപ്പന്നങ്ങൾക്ക് കാരണമാകുന്ന ഒരു പ്രക്രിയയാണ് ഒരു സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വരെയുള്ള ചെലവുകൾ സംയുക്ത ഉൽപ്പന്ന വിലയായി കണക്കാക്കുന്നു സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ രണ്ട് ഉൽപ്പന്നങ്ങളും വേർതിരിക്കുന്നു ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന ചിലവ് പ്രശ്നം വിഭജനം വരെയുള്ള ചെലവ് എന്തുതന്നെയായാലും അത് ശ്രദ്ധാപൂർവ്വം വേർതിരിച്ച് രണ്ട് ഉൽപ്പന്നങ്ങളിലേക്ക് ചാർജ് ചെയ്യേണ്ടതുണ്ട് ജനപ്രിയമായി ഉപയോഗിക്കുന്ന ചില രീതികളുണ്ട് രണ്ട് ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായും ഒരേ സാമ്പത്തിക മൂല്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ യൂണിറ്റ് രീതിയിലേക്ക് പോകാം ഉദാഹരണത്തിന് പെട്രോളിനും ഡീസലിനും സമാനമായ മൂല്യമുള്ള വിൽപ്പന മൂല്യമുണ്ടെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന ലിറ്ററുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാകാം മൂല്യങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ നിങ്ങൾക്ക് ആപേക്ഷിക വിൽപ്പന മൂല്യ രീതിയിലേക്ക് പോകാം ചിലപ്പോൾ വിഭജിക്കുമ്പോൾ അവയുടെ വിപണി മൂല്യം നിങ്ങൾക്കറിയാം തുടർന്ന് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ഓഫ് എന്നതിന്റെ മാർക്കറ്റ് അല്ലെങ്കിൽ വിൽപ്പന മൂല്യത്തിലേക്ക് പോകാം അല്ലെങ്കിൽ ചിലപ്പോൾ അത് നെറ്റ് റിയലൈസബിൾ മൂല്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും ഓരോ രീതികളും വീണ്ടും വിശദീകരിക്കുന്നു ഫിസിക്കൽ യൂണിറ്റ് രീതിയിൽ ഇത് ഭാരം പോലുള്ള ചില ശാരീരിക അളവുകളെ അടിസ്ഥാനമാക്കിയോ അല്ലെങ്കിൽ ലിറ്ററുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയുള്ളതോ ആയ വിഹിതമാണ് അതുപോലെ മറ്റ് രീതികളിലൂടെയും ഇത് ചെയ്യാൻ കഴിയും കോൺസ്റ്റന്റ് ഗ്രോസ് മാർജിൻ രീതി എന്ന് അറിയപ്പെടുന്ന ഒരു രീതി കൂടിയുണ്ട് അവിടെ മൊത്ത മാർജിൻ സ്ഥിരമാണെന്നും ചെലവ് കണക്കാക്കിയ മൊത്ത ലാഭത്തിന്റെ ഭൂരിഭാഗവും കുറയ്ക്കുമെന്നും അനുമാനിക്കാം നെറ്റ് റിയലൈസബിൾ മൂല്യത്തിന്റെ കാര്യത്തിൽ വിൽപ്പന വിലയുടെ മൂല്യം അല്ലെങ്കിൽ വേർപിരിയലിനു ശേഷമുള്ള വിൽപ്പന വില ഞങ്ങൾ ആദ്യം അറിയുന്നു നെറ്റ് റിയലൈസബിൾ മൂല്യം ലഭിക്കുന്നതിന് ഞങ്ങൾ വേർപിരിയലിനു ശേഷമുള്ള ചെലവ് കുറയ്ക്കുകയും നെറ്റ് റിയലൈസബിൾ മൂല്യത്തെ അടിസ്ഥാനമാക്കിയുള്ള വിഹിതം നൽകുകയും ചെയ്യും നിങ്ങൾക്ക് മനസിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതോടെ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം